അതുകൊണ്ട് നമുക്ക് മറ്റൊരു പ്രശ്നം എടുക്കാം ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ RC സർക്യൂട്ട് കാണുന്നു നമുക്ക് RL സർക്യൂട്ട് കാണണം DC ഭാഗം അവസാനിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ സിംഗിൾ ഫേസ് AC സർക്യൂട്ടിലേക്ക് പോകും പിന്നെ r റെസൊണൻസ് AC സർക്യൂട്ടിലെ നിങ്ങളുടെ പരമാവധി വൈദ്യുതി കൈമാറ്റം ആ കാര്യങ്ങൾ പിന്നീട 3 ഫേസ് സർക്യൂട്ട് പിന്നെ മാഗ്നറ്റിക് സർക്യൂട്ട് പിന്നെ 3 കാര്യങ്ങൾ ഉണ്ട് അതിനാൽ ഡിസി ട്രാൻസിയൻറ് പാർട്ടിനാണ് പക്ഷേ AC സർക്യൂട്ടിനായി ഞങ്ങൾ വളരെ കുറച്ച് മാത്രമേ പരിഹരിക്കൂ കാരണം കോംപ്ലക്സ് നമ്പർ ഉൾപ്പെടും അതിനാൽ എന്തായാലും അടുത്ത പ്രശ്നത്തിലേക്ക് വരൂ അതിനാൽ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ ഈ സർക്യൂട്ടിനായി നിങ്ങൾ കണ്ടെത്തേണ്ടത് ഇതാണ്Vc സ്വിച്ച് അടച്ചതിനുശേഷം Vc നിർണ്ണയിക്കുക അതിനാൽ സ്വിച്ച് അടച്ചു VC 0 ന്റെ പ്രാരംഭ മൂല്യം 3 വോൾട്ട് നൽകിയിരിക്കുന്നു VC 0 3 വോൾട്ട് അത് നൽകിയിരിക്കുന്നു ഇപ്പോൾ സ്വിച്ച് അടച്ചിരിക്കുന്നു അതിനാൽ സ്വിച്ച് അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ VC കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ VC ന്റെ പ്രാരംഭ മൂല്യം അറിയപ്പെടുന്നു ഞങ്ങൾക്ക് VC∞ കണ്ടെത്താണം അതിനാൽ സ്വിച്ച് ദീർഘനേരം അടച്ചിരിക്കുന്നതിനാൽ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കും അതിനർത്ഥം ഞാൻ ഇതുപോലെ സർക്യൂട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് 8 വോൾട്ട് ആണ് ഇത് 1 കിലോ Ω ആണ് കപ്പാസിറ്റർ ഇവിടെ എവിടെയോ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് തുറന്ന കപ്പാസിറ്ററാണ് 13 കിലോ Ω ഇതിലുള്ള വോൾട്ടേജ് VC എന്നാൽ ഇത് തുറന്നിരിക്കുന്നു അതായത് കറന്റ് ഇതുപോലെ ഒഴുകും കാരണം സ്റ്റഡി സ്റ്റേറ്റിലോ t ∞ യിലോ സ്വിച്ച് ദീർഘനേരം അടച്ചിരിക്കുന്നതിനാൽ കറന്റ് കണ്ടെത്തേണ്ടതുണ്ട് തുടർന്ന് കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജ് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ അങ്ങനെയാണെങ്കിൽ ഇത് കറന്റാണെങ്കിൽi∞ എന്ന് എനിക്ക് പറയാം കാരണം സ്വിച്ച് ദീർഘനേരം അടച്ചിരുന്നു അതിനാൽ ഇത് 8 വോൾട്ട് ആണ് അത് കിലോ Ω ആണ് ഇത് കിലോ Ω ആണ് അതിനാൽ i ∞ 81⅓ 8¾ 6 mA ഇത് മില്ലിയംപിയർ ആയിരിക്കും VC ∞ എന്താണ് ഞാൻ ഇത് നിങ്ങൾക്കായി ഇവിടെ എഴുതാം ആയിരിക്കും i ∞ 6 മില്ലിയംപിയർ ആണ് ഇത് C ⅓ കിലോ Ω അതിനാൽ ഇത് VC ∞ 6⅓ 2 വോൾട്ട് ആണ് അതിനാൽ VC ∞ 2 വോൾട്ട് നമുക്ക് കൂടുതൽ നോക്കാം ഒരു കാര്യം കൂടി ഉണ്ട് ടൈം കോൺസ്റ്റന്റ് സ്വിച്ച് അടച്ചാണ് നിങ്ങൾ ഈ പോയിന്റിൽ നിന്ന് RThevenin കണ്ടെത്തേണ്ടതുണ്ട് കാരണം കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആയി പ്രവർത്തിക്കുന്നു RThevenin ലഭിക്കുന്നതിന് ഈ വോൾട്ടേജ് ഉറവിടം ഷോർട് ചെയ്യപ്പെടും അതിനാൽ നിങ്ങൾക്ക് RThevenin 1 ⅓1⅓ ¼ കിലോ Ω 1⅓ കിലോ Ω ഇവ സമാന്തരമായി ഘടിപ്പിച്ചിരിക്കുന്നു അതിനാൽ RThevenin 14 കിലോ Ω കപ്പാസിറ്റർ 2 മൈക്രോഫാരഡ് ആണ് അതിനാൽ ടൈം കോൺസ്റ്റന്റ് C RThevenin അതിനാൽ ഇത് 2 മൈക്രോഫാരഡ് ആണ് അതായത് 2 10 6 1 4 കിലോ Ω അതിനാൽ ¼ 103 വരാനിരിക്കുന്ന കണക്കുകൂട്ടൽ പിന്നീട് കാണിക്കും ഇതാണ് സർക്യൂട്ട് അതിനാൽ RThevenin 14 kg Ω ഇത് എങ്ങനെ കണക്കുകൂട്ടണമെന്ന് ഞാൻ പറഞ്ഞു എല്ലാം ഇവിടെയുണ്ട് C RThevenin ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു അത് 12 10 3 സെക്കൻഡ് കൂടാതെ VC∞ നിങ്ങൾക്കായി കണക്കുകൂട്ടി ഇത് 2 വോൾട്ട് ഞാൻ നിങ്ങൾക്കായി കണക്കുകൂട്ടി അതിനാൽ VC പൊതുവൽക്കരിച്ച ഫോർമുല VC VC∞ VC VC ∞ e t𝛕 ഈ സ്റ്റാൻഡേർഡ് ഫോർമുല ഉപയോഗിക്കുന്നു VC ∞ 2 volt VC 3 τ12000 VC 23 2e 2000t t 0 ആയിരിക്കുമ്പോൾ VC 2e 2000t volt അതിനാൽ ചിത്രം 46 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിലെ സ്വിച്ച് വളരെക്കാലമായി A സ്ഥാനത്താണ് അതിനാൽ ഇത് വളരെക്കാലം A സ്ഥാനത്ത് ഉണ്ടായിരുന്ന സർക്യൂട്ട് ആണ് t 0 ൽ സ്വിച്ച് തൽക്ഷണം B സ്ഥാനത്തേക്ക് നീങ്ങുന്നു VC V 0 i0 എന്നിവ കണ്ടെത്തണം ഭാഗം B യിൽ 60 കിലോ Ω റെസിസ്റ്ററിൽ ഡിസിപിറ്റേറ്റ് ചെയ്ത മൊത്തം ഊർജ്ജം കണ്ടെത്തണം അതിനാൽ സ്വിച്ച് വളരെക്കാലം A സ്ഥാനത്തായിരുന്നു അതിനുശേഷം അത് t 0 ൽ മാറുന്നു അത് A യിൽ നിന്ന് B യിലേക്ക് നീങ്ങുന്നു അതിനാൽ നിങ്ങൾ VC V 0 i0കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇത് കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജാണ് VC ഇത് i0 ആണ് ഇത് 240 കിലോ Ω റെസിസ്റ്ററിലുടനീളമുള്ള വോൾട്ടേജാണ് V0 അതിനാൽ ഇവയെല്ലാം നിങ്ങൾ VC V 0 i0 നേടേണ്ടതുണ്ട് ഇപ്പോൾ സ്വിച്ച് വളരെക്കാലം ഈ സ്ഥാനത്ത് ആയിരുന്നു സ്വിച്ച് ഒരേ പൊസിഷനിൽ ആയിരുന്നതിനാൽ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ഡിസി ആയിരുന്നു അതിനാൽ ഇവിടെ കപ്പാസിറ്റർ ഓപ്പൺ ആയിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇടത് ഭാഗത്തിന്റെ സ്റ്റഡി സ്റ്റേറ്റിൽ ആണ് അതിനാൽ കപ്പാസിറ്റർ തുറന്ന സർക്യൂട്ട് ആയിരുന്നു അതിനാൽ സ്വാഭാവികമായും VC 0 100 വോൾട്ട് എടുക്കുക VC 0 ആയിരിക്കും കാരണം ഒരു കപ്പാസിറ്ററിലൂടെയുള്ള വോൾട്ടേജ് A സ്ഥാനത്ത് നിന്ന് B ലേക്ക് മാറുമ്പോൾ അത് തൽക്ഷണം മാറാൻ കഴിയില്ല അതിനാൽ വിസി 0 100 വോൾട്ട് ആയിരിക്കും കാരണം സ്വിച്ച് വളരെക്കാലം A സ്ഥാനത്തായിരുന്നു അതായത് കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കുന്നു അതിനാൽ നേരിട്ട് VC 0 100 വോൾട്ട് ആയിരിക്കും അതിനാൽ വീണ്ടും പറയുന്നില്ല അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇപ്പോൾ t 0 ൽ സ്വിച്ച് A യിൽ നിന്ന് B യിലേക്ക് നീങ്ങുന്നു ഈ സർക്യൂട്ട് ഇതാണ് 32 കിലോ Ω 240 കിലോ Ω 60 കിലോ എന്നിവ സമാന്തരമായി ഘടിപ്പിച്ചിരിക്കുന്ന ഇപ്പോൾ അവയുടെ തത്തുല്യമായ RThevenin 32 240 60240 60 ആയിരിക്കും അത് 80 കിലോ Ω കപ്പാസിറ്റർ 0 5 മൈക്രോഫാരഡ് ആണ് അതിനാൽ tau C RThevenin 04 സെക്കൻഡ് ആണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ ചിത്രം A യിൽ ഇത് അടിസ്ഥാനപരമായി സോഴ്സ് ഫ്രീ സർക്യൂട്ട് ആണെന്ന് ശ്രദ്ധിക്കുക ഒരു സ്രോതസ്സുമില്ല കാരണം ഈ കപ്പാസിറ്റർ 100 വോൾട്ടിലാണ് ചാർജ്ജ് ചെയ്യുന്നത് t ∞ ആയിരിക്കുമ്പോൾ എല്ലാ ഊർജ്ജവും റെസിസ്റ്ററിൽ ഡിസിപിറ്റേറ്റ് ചെയ്യും അതിനാൽ ഇത് അടിസ്ഥാനപരമായി സോഴ്സ് ഫ്രീ സർക്യൂട്ട് ആണ് അതായത് VC∞ 0 ആയിരിക്കും കാരണം സർക്യൂട്ടിൽ ഒരു ഉറവിടവുമില്ല ഇത് ഒരു കപ്പാസിറ്റർ മാത്രമാണ് തുടക്കത്തിൽ ഇത് 100 വോൾട്ടിലാണ് ചാർജ് ചെയ്തിരുന്നത് അതിനാൽ അത് DC വോൾട്ടേജ് സ്രോതസ്സല്ല അതിനാൽ VC ∞ 0 കാരണം കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം റെസിസ്റ്ററിൽ ഡിസിപിറ്റേറ്റ് ചെയ്യും ഈ സർക്യൂട്ട് ഒരു സോഴ്സ് ഫ്രീ സർക്യൂട്ട് പോലെയാണ് അതിനാൽ ഈ കേസിൽ VC∞ 0 അതിനാൽ ഇപ്പോൾ പൊതുവായ ഫോർമുല പറയുന്നത് VCt VC ∞ VC 0 VC ∞ e t tau എന്ന് പറയുക VC 0 100 VCt 100e 25t volt for t0 ഇപ്പോൾ നിങ്ങൾ സർക്യൂട്ടിലേക്ക് വന്നാൽ ഇപ്പോൾ VCt അറിയാം നിങ്ങൾ V 0 t കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ ചോദ്യം അത് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഇത് ഒന്ന് നോക്കൂ V 0 t VCt 40 80 അതിനാൽ നിങ്ങൾ ഈ സർക്യൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അതിനാൽ ഇവ രണ്ടും സമാന്തരമായി വരുന്നു 240 ഉം 60 ഉം ഇത് 32 ആണ് അതിനാൽ RThevenin 32 24060300 ആയി മാറുന്നു അതിനാൽ ഇത് 48 ആണ് ഇത് 32 ആകെ 3248 80 കിലോ Ω ആണ് ഇപ്പോൾ നിങ്ങൾ ഈ ഭാഗം V0t നോക്കിയാൽ അത് VCt 40 80 അതിനാൽ ഇത് 60 e 5 t ആയിരിക്കും t 0 ൽ ഈ ഭാഗം ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ അത് ചെയ്യൂ i 0t V 0 t 60 ആയിരിക്കും അതിനാൽ i 0 t നിങ്ങൾ യഥാർത്ഥ സർക്യൂട്ടിലേക്ക് വന്നാൽ ഇതാണ് i 0 t ഇത് 60 ആണ് അത് സർക്യൂട്ട് അടയ്ക്കുമ്പോൾ ഇതാണ് ഇത് യഥാർത്ഥത്തിൽ i0 t ആണ് അതിനാൽ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഇത് i 0 ആണ് ഈ കപ്പാസിറ്റർ ഈ 240 60 എല്ലാം സമാന്തരമാണ് അതിനാൽ ഇത് VCt 60 കിലോ Ω മില്ലിയാംപിയർ ആയിരിക്കും അതിനാൽ ഇത് i 0 t V 0 t 60 10 3 അത് t 0 ഇ e 25 മില്ലിയംപിയർ ആണ് t 0 അതായത് R 60 കിലോ Ω 60 10 3 അതായത് ഇത് 60 e 50 t milliwatt t 0 ആണ് ഇപ്പോൾ 60 കിലോ Ω റെസിസ്റ്ററിൽ ഡിസിപിറ്റേറ്റ് ചെയ്ത മൊത്തം പവർ t 0 ഇൽ P60 i02 60103 60 e 50t milliwatt ഇപ്പോൾ 60 കിലോ Ω റെസിസ്റ്ററിൽ ഡിസിപിറ്റേറ്റ് ചെയ്ത ഊർജ്ജം കണ്ടത്താൻ നിങ്ങൾ 0 മുതൽ ∞ വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം W60 0i02 60103 dt i0 e 25t നിങ്ങൾക്ക് 1 2 മില്ലി ജൂൾ ലഭിക്കും ഇതാണ് ഉത്തരം അടുത്തത് ഈ ചിത്രം എടുക്കുക ചിത്രം 48 ൽ സ്വിച്ച് t 0 ൽ അടച്ചിരിക്കുന്നു Vc 0 0 നൽകി t 0 ഇൽ i നിർണ്ണയിക്കുക അതായത് തുടക്കത്തിൽ സ്വിച്ച് തുറന്നിരുന്നു കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജിന്റെ പ്രാരംഭ മൂല്യങ്ങൾ 0 ആണ് കൂടാതെ സ്വിച്ച് അടയ്ക്കുമ്പോൾ നിങ്ങൾ t 0 ന് i നിർണ്ണയിക്കണം അതിനാൽ ഈ സ്വിച്ച് അടച്ചുകഴിഞ്ഞാൽ കപ്പാസിറ്റർ ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും അതിനർത്ഥം കുറച്ച് മനസ്സിലാക്കൽ ആവശ്യമാണ് t 0 ൽ സ്വിച്ച് അടച്ചിട്ടുണ്ടെന്ന് കരുതുക അതായത് തുടക്കത്തിൽ സ്വിച്ച് തുറന്നിരുന്നു ഇപ്പോൾ t 0 ൽ സ്വിച്ച് അടച്ചിരിക്കുന്നു അതായത് ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ് ഇത് 20 മില്ലിയംപിയർ കറന്റ് ആണെങ്കിൽ ഇത് ഇതിൽ ഒരു സ്വാധീനവുമില്ല കാരണം ഇത് ഒരു ഷോർട്ട് സർക്യൂട്ട് വൈദ്യുതധാരയാണ് ഈ പാതയിലൂടെ കറന്റ് പോകും ഇത് ഒരു ഷോർട്ട് സർക്യൂട്ട് ആയതിനാൽ ഇവയെല്ലാം ഒരു പൊതു ടെർമിനൽ ആണ് അങ്ങനെ 60 കിലോ Ω 6 കിലോ Ω അവ സമാന്തരമാണ് ആ സാഹചര്യത്തിൽ V1 എന്താണെന്നും i3 എന്താണെന്നും കണ്ടെത്താൻ നോഡൽ വിശകലനം ആവശ്യമാണ് അതിനാൽ നിങ്ങൾ സ്വിച്ച് അടച്ചയുടനെ അതിനാൽ i യുടെ പ്രാരംഭ മൂല്യത്തിൽ ഒരു ഫലവും ഉണ്ടാകില്ല കാരണം ഇത് ഒരു ഷോർട്ട് സർക്യൂട്ട് ആണ് ഞാൻ അതിലേക്ക് വരും ഇതിനർത്ഥം കപ്പാസിറ്ററിന്റെ ഷോർട്ട് സർക്യൂട്ടിംഗ് പ്രവർത്തനങ്ങളിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ i0 എന്തായിരിക്കും അതിനാൽ ഇത് നിങ്ങൾ ആദ്യം നോക്കുക അത് 100 വോൾട്ട് ആണ് മൊത്തം കറന്റ് കണ്ടെത്തണം നിങ്ങൾ അത് എങ്ങനെ ചെയ്യും ഇത് ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് കരുതുക പിന്നെ 6 കിലോ Ω ഉം 60 കിലോ Ω സമാന്തരമായും അതിനു ശ്രേണിയിലായി 40 കിലോ Ω ഉണ്ട് അതായത് 40 6 606 60 ഇതാണ് പ്രതിരോധത്തിന്റെ ആകെ മൂല്യം കാരണം ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ് ഇവ സമാന്തരമാണ് ഞാൻ ഇതിന് തുല്യമായ ഒരു സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് 100 വോൾട്ട് ഉറവിടം മാത്രമേയുള്ളൂ പ്രതിരോധം ഇതുപോലെയാണ് ഈ ഭാഗം മറക്കുക ഞാൻ ഈ ഭാഗ൦ചെയ്യുന്നു അതിനാൽ ആ സാഹചര്യത്തിൽ കറന്റ് ഒഴുകുന്നു ഈ മൂല്യം ഇതിനർത്ഥം ഈ 100 40 6 60 66 എന്നാണ് ഇതാണ് കറന്റ് ഇത് ഉറവിടത്തിൽ നിന്ന് പുറത്തുവരുന്ന കറന്റാണ് അപ്പോൾ കറന്റ് വിഭജനം ഉണ്ടാകും അപ്പോൾ ഇതിലൂടെയുള്ള കറന്റ് എന്തായിരിക്കും പിന്നെ ഇതാണ് കറന്റ് ഇതാണ് കറന്റ് വിഭജനം കറന്റ് 100 40 6 60 66 മില്ലിയംപിയർ ലഭിച്ചു അപ്പോൾ നമുക്ക് വേണ്ടത് i0 കറന്റ് ഡിവിഷൻ 6 6 60 അത് കറന്റ് ഡിവിഷൻ ഭാഗമായിരിക്കും അത് കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ ഇത് ടോട്ടൽ കറന്റ് ആണ് ഇത് 66 60 കറന്റ് വിഭജനമാണ് അതായത് ഈ i 0 അത് 0 0 2 മില്ലി അമ്പയർ നിങ്ങൾ ഇത് പിന്തുടരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത് എന്റെ 100 വോൾട്ട് ആണ് ഇത് എന്റെ 40 കിലോ Ω ഈ രീതിയിൽ ഇത് ഷോർട് ചെയ്തിരിക്കുന്നതിനാൽ ഇവ രണ്ടും സമാന്തരമാണ് അതിനാൽ ഇത് ഷോർട് ചെയ്യുതിനാൽ ഇത് എന്റെ 60 കിലോ Ω ഇത് എന്റെ 6 കിലോ Ω അതിനർത്ഥം നിങ്ങൾ ഇതിന് തുല്യമായ സർക്യൂട്ട എടുക്കുകയാണെങ്കിൽ ഈ സർക്യൂട്ട് ന്റെ റെസിസ്റ്റൻസ് 40 60 660 6 ആയിരിക്കും ഈ ഭാഗത്തിന്റെ തുല്യമായ സർക്യൂട്ട് 100 വോൾട്ടും പ്രതിരോധവും ആണ് അതിനാൽ ഈ കറന്റ് നിങ്ങൾ കണ്ടെത്തുന്നു ഉറവിടത്തിൽ നിന്ന് വരുന്ന മൊത്തം കറന്റ് ഇതാണ് ഇത് 100 വോൾട്ട് അതായത് 100 വോൾട്ട് 40 6 60 6 60 ഇതാണ് ഞാൻ ഇവിടെയുള്ള മൊത്തം കറന്റ് i ഞാൻ അറിഞ്ഞുകഴിഞ്ഞാൽ സ്വിച്ച് അടയ്ക്കുന്ന സമയത്ത് i 0 കണ്ടെത്തേണ്ടതുണ്ട് ഇതിനർത്ഥം ഈ i അതാണ് ടോട്ടൽ കറന്റ് i 6 6 60 അതായത് i 0 2 മില്ലി ആമ്പിയർ ആണ് ഇപ്പോൾ സ്വിച്ച് ദീർഘനേരം അടച്ചിരിക്കുന്നതിനാൽ നോഡൽ വിശകലനത്തിലൂടെ കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ടായി കണക്കാക്കാം അതിനാൽ ഇപ്പോൾ സ്വിച്ച് ദീർഘനേരം അടച്ചിരിക്കുന്നു അതിനാൽ സ്വിച്ച് അടച്ചതു തൽക്ഷണം ആണ് ഇപ്പോൾ സ്വിച്ച് ദീർഘനേരം അടച്ചിരിക്കുന്നു അതായത് ഈ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആണ് അതിനാൽ ആ സാഹചര്യത്തിൽ ഇത് തുറക്കുമ്പോൾ ഈ V 1 നിങ്ങൾക്ക് ഒരു V 1 ∞ സ്റ്റഡി സ്റ്റേറ്റ് എന്നു എഴുതാം അതുപോലെ v2 ന്റെ ഈ നോഡൽ വിശകലനം അത് v2 ss ആയി പ്രയോഗിക്കേണ്ടതുണ്ട് അതിനാൽ സ്ഥിരമായ അവസ്ഥയിൽ സ്വിച്ച് ദീർഘനേരം അടച്ചിരുന്നതിനാൽ എത്തുകയും ഈ നോഡിൽ നിങ്ങൾ നോഡൽ വിശകലന൦ കെസിഎൽ ചെയ്താൽ ഇത് മുമ്പ് വളരെയധികം പഠിച്ചതാണ് അതിന്റെ നിരവധി പ്രശ്നങ്ങളും പരിഹരിച്ചു അതിനാൽ ഞാൻ നേരിട്ട് ഈ സമവാക്യങ്ങൾ എഴുതുന്നില്ല നിങ്ങൾ കെസിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ ആ 2 നോഡുകളിൽ KCL പ്രയോഗിക്കുക നിങ്ങൾക്ക് V1∞ V2∞ എന്നിവയുടെ അടിസ്ഥാനത്തിൽ 2 സമവാക്യങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് ആ 2 സമവാക്യങ്ങളിൽ സമവാക്യങ്ങൽൾ 1 2 പരിഹരിക്കാനാകും നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ 62 67 ലഭിക്കും ഓർക്കുക ഈ വോൾട്ടേജ് എടുത്തു ഈ കറന്റ് 20 മില്ലി ആമ്പിയർ ഇത് മില്ലിയംപിയറിലാണ് എല്ലാം കിലോ Ω ആണ് അതിനാൽ അത് മില്ലിയംപിയറും കിലോ Ω ഉം ആണ് അതുകൊണ്ടാണ് 10 3 ഗുണിക്കാത്തത് സമവാക്യങ്ങൾ ഇതുപോലുള്ള നേരിട്ടു എഴുതിയാൽ V1∞ 62 67 വോൾട്ടും അതിനാൽ i ∞ V1∞60 കിലോയിൽ Ω ആകും അതായത് 60 10 3 നിങ്ങൾ ഇതിലേക്ക് വന്നാൽ i ∞ ഇതാണ് സ്റ്റഡി സ്റ്റേറ്റിലെ കറന്റ് അതിനാൽ എന്താണ് V1∞V2∞ എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഇവ 2 നോഡൽ വോൾട്ടേജാണ് അതിനാൽ i ∞ V1∞ 60 ആയിരിക്കും അതിനാൽ അതുകൊണ്ടാണ് i 1 ∞ 1 04 മില്ലിയംപിയർ ഇപ്പോൾ കപ്പാസിറ്റർ ടെർമിനലുകളിലെ തെവെനിൻ പ്രതിരോധം ഇപ്പോൾ ഇവിടെ ട്രാന്സിറ്ന്റ് പ്രതികരണം കണ്ടെത്താൻ നിങ്ങൾ ആ RThevenin കണ്ടുപിടിക്കണം RThevenin എന്നതിനർത്ഥം ഇത് ഷോർട് ആണ് ഇത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും വലതുവശത്ത് ഇത് 40 20 ആയിരിക്കും അതായത് 60 കിലോ Ω ഷോർട്ട് സർക്യൂട്ട് ആയതിനാൽ ഈ വശം അങ്ങനെ 40 കിലോ Ω 60 കിലോ Ω എന്നിവ സമാന്തരമായും ആ 6 കിലോ Ω അതിനു സീരീസിലാണ് അതായത് ഇടത് വശത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വശം അത് 6 40 6040 60 ആയിരിക്കും അതിനർത്ഥം ഈ വശത്ത് നമുക്ക് എഴുതാൻ കഴിയുന്ന 6 40 || 60 ആയിരിക്കും ഇതാണ് ഈ വശത്തിന്റെ എക്വിവാലെന്റ സർക്യൂട്ട് അതിനാൽ ഈ വശവും ഇപ്പുറവും ഈ കോമ്പിനേഷനും ഈ 60 ന് സമാന്തരമാണ് RThevenin കണക്കാക്കാം അതിനാൽ 20 കിലോ Ω അതിനാൽ tau C RThevenin അതിനാൽ tau 1 സെക്കൻഡ് ആയി മാറുന്നു റിലേഷൻ ഉപയോഗിച്ച് നിങ്ങൾ ഇത് ഉരുത്തിരിഞ്ഞു നിങ്ങൾക്കത് ലഭിക്കും പക്ഷേ നേരിട്ട് എഴുതാം i i ∞ i i ∞ e t tau 04 i 0 2 കണക്കാക്കി ഇവയെല്ലാം മില്ലിയാംപിയർ ആണ് അത് i ∞ 1 04 ആണ് അതിനാൽ ഇത് 1 04 ആയിരിക്കും അതിനാൽ i 1 04 1 24 e t milliampere 40 0 ഇതാണ് i യുടെ മൂല്യം മറ്റൊന്ന് ചിത്രം 49 ൽ ഈ സ്വിച്ച് t 0 സെക്കന്റിൽ അടച്ചിരിക്കുന്നു Vc 0 100 വോൾട്ട് നൽകുമ്പോൾ t 0 ന് VCt it എന്നിവ നിർണ്ണയിക്കുക ഇതാണ് VC t കപ്പാസിറ്റർ പ്രാരംഭ വോൾട്ടേജ് നൽകിയിരിക്കുന്നു അതായത് VC 0 തുടക്കത്തിൽ സ്വിച്ച് തുറന്നിരുന്നു ഇപ്പോൾ നിങ്ങൾ ആ സ്വിച്ച് അടച്ചുകഴിഞ്ഞാൽ നിങ്ങൾ 2 കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഒന്ന് VC ∞ എന്താണ് ഇപ്പോൾ പരിഹാരത്തിലേക്ക് പോകുന്നതിനുമുമ്പ് അതിനാൽ ഈ സ്വിച്ച് അടച്ചിരിക്കുന്നു ഈ സ്വിച്ച് ദീർഘനേരം അടച്ചിട്ടുണ്ടെന്ന് കരുതുന്നു അതിനാൽ ഈ കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കും അതിനർത്ഥം കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജിൽ VC ∞ എഴുതാൻ കഴിയും എന്നാണ് കാരണം കപ്പാസിറ്റർ അത് 22 5 മില്ലിഫാരഡ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ കപ്പാസിറ്റർ എന്ത് സംഭവിക്കും ഈ ഭാഗം തുറന്നിട്ടുണ്ടെങ്കിൽ കറന്റ് എന്താണെന്ന് ആദ്യം നിങ്ങൾ കണ്ടെത്തുക അതിനാൽ ഇത് i 30040 60 ആണെങ്കിൽ അതിനാൽ 3 ആമ്പിയർ അപ്പോൾ ഈ 3 ആമ്പിയർ കറന്റ് ഇതിലൂടെ ഒഴുകുന്നു VC∞ V അല്ലാതെ മറ്റൊന്നുമല്ല കാരണം ഈ റെസിസ്റ്ററിലേ വോൾട്ടേജ് 60 ആണ് അതിനാൽ VC ∞ കാരണം ഈ വശ൦ തുറന്നിരിക്കുന്നു അവിടെ ഒന്നും ഒഴുകുന്നില്ല അതിനാൽ VC ∞ 60 3 180 വോൾട്ട പ്രാരംഭ മൂല്യം VC 0 VC ∞ എന്നിവ നൽകി അന്തിമ മൂല്യം സ്റ്റഡി സ്റ്റേറ്റ് മൂല്യം 180 വോൾട്ട് ആണ് അടുത്തതായി ചെയ്യേണ്ടത് സർക്യൂട്ടിന്റെ സമയ സ്ഥിരാങ്കം കണ്ടെത്തുക എന്നതാണ് ഇപ്പോൾ ഞാൻ അത് വ്യക്തമാക്കാം അതിനാൽ ഇത് തുറന്നിരിക്കുന്നതിനാൽ ഇത് കപ്പാസിറ്റർ ടെർമിനൽ ആയതിനാൽ തുല്യ പ്രതിരോധം R തേവിനിൻ കണ്ടെത്തേണ്ടതുണ്ട് ഇത് ഷോർട് ചെയ്തിരിക്കുന്നതിനാൽ 40 60 സമാന്തരമായി വന്നു അതിനാൽ RThevenin 16 40 60 40 60 C 2 5 മില്ലിഫാരഡ് നൽകുന്നു അതിനാൽ tau C RThevenin നിങ്ങൾക്ക് എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ കഴിയും അതിനാൽ ഈ സാഹചര്യത്തിൽ V 0 V 0 ആണ് VC ∞ 180 വോൾട്ട് എന്ന് കണക്കു കൂട്ടിയിട്ടുണ്ട് ഞാൻ i ∞ 3 ആമ്പിയറും കണക്കാക്കി അതിനാൽ നോഡൽ വിശകലനം ഉപയോഗിച്ച് V 0 എളുപ്പത്തിൽ ലഭിക്കും അതിനാൽ ഇവിടെ നിങ്ങൾ കെസിഎൽ പ്രയോഗിക്കേണ്ടതുണ്ട് ഈ പോയിന്റിൽ വോൾട്ടേജ് 300 വോൾട്ടും ഈ പ്രാരംഭ വോൾട്ടേജ് VC 0 100 വോൾട്ട് ആയിരുന്നു അതിനാൽ ഈ ഘട്ടത്തിൽ നിങ്ങൾ നോഡൽ വിശകലനം പ്രയോഗിക്കുക നിങ്ങൾ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ എടുക്കുകയും അങ്ങനെ നിങ്ങൾ ഈ ഘട്ടത്തിൽ കെസിഎൽ പ്രയോഗിക്കുകയും ചെയ്യുന്നുവെന്ന് കരുതുക അതിനാൽ അത് ഇവിടെ സ്വിച്ച് അടച്ചിരിക്കുന്ന സമയത്ത് ചെയ്യുന്നു അതിനാൽ V 0 നോഡൽ വിശകലനം ഉപയോഗിച്ച് എളുപ്പത്തിൽ ലഭിക്കും V 0 30040 V 0 60 V 0 10016 0 ടെർമിനൽ V 0 30040 V 0 60 V 0 10016 0 എല്ലാ കറന്റും യഥാർത്ഥത്തിൽ പുറത്തേക്ക് പോകുന്നു അതിനാൽ അതുകൊണ്ട എല്ലാം സംഗ്രഹിക്കുക നിങ്ങൾ ഈ V 0 132 വോൾട്ടും i 0 132 60 2 2 മില്ലിയംപിയർ ഇപ്പോൾ RThevenin 40 Ω tau നിങ്ങൾക്ക് 0 1 സെക്കൻഡ് ലഭിക്കും VCt VC ∞ ആയിരിക്കും അത് 180 വോൾട്ട് എന്ന് കണക്കാക്കി Vc 0 100 വോൾട്ട് നൽകി ടൌ 0 1 സെക്കൻഡ് കണക്കുകൂട്ടുന്നു അതിനാൽ t tau അതിനാൽ ഇത് VCt 180 80 e 10 t വോൾട്ട് ആണ് അത് t 0 അതുപോലെ i i ∞ i i ∞ e t tau അതിനാൽ i t 3 2 2 3 e 10t അതിനാൽ i 3 0 8 e 10 t ആമ്പിയർ t 0 ൽ അടുത്തത് വളരെ രസകരമായ ഒരു പ്രശ്നമാണ് ഫിഗർ 50 സൂചിപ്പിചിരിക്കുന്നതുപോലെ വോൾട്ടേജുകളും t 0 ൽ വൈദ്യുതധാരയും നിർണ്ണയിക്കണം സ്വിച്ച് അടച്ചയുടനെ കപ്പാസിറ്ററുകൾ തുടക്കത്തിൽ ചാർജ്ജ് ചെയ്തിട്ടില്ലാത്തതിനാൽ സ്വിച്ച് അടച്ചതിനുശേഷം വളരെക്കാലം കഴിഞ്ഞുള്ള വോൾട്ടേജുകളും വൈദ്യുതധാരയും കണ്ടെത്തുക സ്വിച്ച് അടച്ചയുടനെ i 10 V 1 0 i20 V2 0 V 3 0 i 4 0 V 4 0 എന്നിവയുടെ മൂല്യം എന്തായിരിക്കുമെന്നതാണ് ചോദ്യം മറ്റൊരു കാര്യം സ്വിച്ച് ദീർഘനേരം അടച്ചിരിക്കുക എന്നതാണ് അപ്പോൾ അവയുടെ മൂല്യങ്ങൾ എന്തായിരിക്കും അതായത് സ്റ്റഡി സ്റ്റേറ്റ് മൂല്യങ്ങൾ ആവും അതിനാൽ തുടക്കത്തിൽ സ്വിച്ച് തുറന്നിരുന്നു തുടർന്ന് അത് അടച്ചു അതിനാൽ സ്വിച്ച് തുടക്കത്തിൽ തുറന്നിരിക്കുകയും കപ്പാസിറ്ററുകൾ തുടക്കത്തിൽ ചാർജ് ചെയ്യാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അതായത് V 1 0 V 4 0 0 അപ്പോൾ ഈ 3 മൈക്രോഫാരഡ് കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജ് V 4 ഇവിടെ ഇത് V 1 ആണ് അതിനാൽ തുടക്കത്തിൽ ഇത് ചാർജ് ചെയ്തിട്ടില്ല അതിനാൽ V 1 0 V 4 0 0 ഇപ്പോൾ കപ്പാസിറ്ററിലുടനീളം 0 വോൾട്ട് ആണ് അവ ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പ്രവർത്തിക്കുന്നു ഈ V 4 V 1 ഈ 2 കപ്പാസിറ്ററുകൾ അവർ ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പ്രവർത്തിക്കുന്നു അതിനാൽ v2 0 V 3 0 100 വോൾട്ട് അതായത് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ സ്വിച്ച് അടച്ചാലുടൻ അതിനാൽ ആ സമയത്ത് ഇത് ഷോർട് ആയതിനാൽ V 2 0 V 3 0 100 വോൾട്ട് കാരണം ഇത് ഒരു ഷോർട് ആണ് അതിനാൽ V 2 0 V 3 0 100 വോൾട്ട് ആയിരിക്കും ഇപ്പോൾ ഞാൻ i 1 0 ഇത് ഷോർട് ആയതിനാൽ അതായത് V 1 0 0 ആണ് അതിനാൽ i 3 0 10 ആയിരിക്കും അതിനാൽ ഇത് 0 ആമ്പിയർ ആണ് ഇപ്പോൾ i 3 0 ഇത് യഥാർത്ഥത്തിൽ ഒരു ഡാറ്റ കാണുന്നില്ല ഇത് 25 Ω അതായത് 25 Ω നു കുറുകെ ഉള്ള വോൾട്ടേജ് V 2 ആണ് ഇത് 25 Ω ആണ് അതിനാൽ i 3 0 100 25 ആയിരിക്കും കാരണം ഇത് ഷോർട് ആണ് അതായത് അത് 100 25 4 ആമ്പിയർ ആണ് അതുപോലെ ഇതും ഈ കപ്പാസിറ്റർ V 4 ഇത് ഷോർട് ആണ് സ്വിച്ച് അടച്ചയുടനെ അതിനാൽ ഇത് 100 50 ആയിരിക്കും ഇത് 100 50 2 ആമ്പിയർ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ നോഡിൽ KCL പ്രയോഗിക്കുകയാണെങ്കിൽ i3 0 i10 i20 നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ നോഡിൽ നിങ്ങൾ KCL പ്രയോഗിക്കുക അതിനാൽ നിങ്ങൾ ചെയ്താൽ i 2 0 i 30 i 1 0 4 0 4 ampere എന്ന് കിട്ടും ഇപ്പോൾ രണ്ടാമത്തെ കാര്യം സ്റ്റഡി സ്റ്റേറ്റ് സ്വിച്ച് അടച്ച് വളരെക്കാലം കഴിഞ്ഞ് കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ സ്വിച്ച് ദീർഘനേരം അടച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും ആ സമയത്ത് ഈ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടായും ഈ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടായും പ്രവർത്തിക്കും അതായത് i 4 ∞ i 2 ∞ 0 കാരണം ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ് അതിനാൽ i 4 ∞ സ്റ്റഡി സ്റ്റേറ്റ് മൂല്യം i 2 ∞ 0 കാരണം കപ്പാസിറ്റർ ഒരു തുറന്ന സർക്യൂട്ടായി പ്രവർത്തിക്കുന്നു ഇപ്പോൾ i 1 ∞ i 3 ∞ ഇപ്പോൾ നിങ്ങൾ ഈ കാര്യം വന്നാൽ i 1 ∞ i 2 ∞ ഇപ്പോൾ ഇത് തുറന്നിരിക്കുന്നതുപോലെ ഇതും തുറന്നിരിക്കുന്നതിനാൽ അതിനാൽ ഇതിലൂടെ ഒന്നും ഒഴുകുന്നില്ല ഇതിലൂടെ ഒന്നും ഒഴുകുന്നില്ല ഇത് i 3 i 1 എന്ന് കിട്ടും കാരണം ഇത് തുറന്നതാണ് അതിനർത്ഥം i 3 ഉം i 1 അതിനാൽ ഇപ്പോൾ ഇത് തുറന്ന മാർഗമാണ് അത് അവിടെ ഇല്ല ഇത് തുറന്ന മാർഗമാണ് അത് അവിടെ ഇല്ലെന്ന് കരുതുക ഇത് തുറന്നിരിക്കുന്നു ഇത് ഷോർട് ആണ് അങ്ങനെയാണെങ്കിൽ അത് 10 Ω ആയിരിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവിടെ ഇത് 25 Ω ആണ് ഇത് യഥാർത്ഥത്തിൽ നഷ്ടമായി അതിനാൽ ഇതിലൂടെ ഉള്ള കറന്റ് i 1 100 25 10 ആയിരിക്കും അതായത് i 3 ∞ i 1 ∞ 100 35 ആമ്പിയർ അത് തുറന്നിരിക്കുന്നതിനാൽ അതിനാൽ ഇവിടെയും കറന്റ് ഒഴുകുന്നില്ല ഇത് അടച്ചിരിക്കുന്നു ഒരേയൊരു കാര്യം ഇതാണ് ഇത് സർക്യൂട്ട് ഇതാണ് ഇത് സർക്യൂട്ട് ആണ് ഇതാണ് കറന്റ് ഒഴുകുന്നത് ഇത് 100 വോൾട്ട് ടെർമിനൽ നൽകിയിരിക്കുന്നു അതിനർത്ഥം ഇത് i 1 ∞ ഇതാണ് അതിനുശേഷം ഞാൻ സർക്യൂട്ട് ചെയ്യാൻ പോകുന്നില്ല മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് 6 വോൾട്ട് നോക്കുക 25 Ω ഒറിജിനൽ ഫിഗറിൽ ഇല്ല അതിനാൽ V2 ∞ 25 2 86 71 4 വോൾട്ട് V 3 ∞ 0 50 0 വോൾട്ട് കെവിഎൽ വലത് മെഷിൽ പ്രയോഗിക്കുക അത് സ്റ്റഡി സ്റ്റേറ്റിൽ നിങ്ങൾക്ക് V 4 ∞ 100 V 3 ∞ 100 വോൾട്ട് കിട്ടും വളരെ നന്ദി